ഇലക്ട്രിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഒരു പോളറൈസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പോളറൈസേഷൻ P ആയിട്ടുള്ള വസ്തുവിന്റെ വൈദ്യുതപരമായിട്ടുള്ള സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ബൌണ്ട് ചാർജ് അഥവാ ബന്ധിത ചാർജ് കാരണമുള്ള സർഫേസ് ചാർജ് ഡെൻസിറ്റി അഥവാ ഉപരിതല ചാർജ് ഡെൻസിറ്റി അതുകാരണം ഇതിന്റെ ഒരു വശത്ത് പോസിറ്റീവ് ചാർജും മറുവശത്ത് നെഗറ്റീവ് ചാർജും ലഭിക്കാനിടയാകുന്നു ഇവിടെ n എന്നത് ഡൈഇലൿട്രിക്കിൽ നിന്നും പുറത്തേക്കുള്ള ദിശയിലേക്കുള്ള ലംബം അഥവാ നോർമൽ ആണ് അതുപോലെതന്നെ ബന്ധിത ചാർജ് കാരണമുള്ള വോളിയം ചാർജ് ഡെൻസിറ്റി അഥവാ ബൾക്ക് ചാർജ് ഡെൻസിറ്റി P യെ r ന്റെ ഫങ്ക്ഷൻ ആയി എഴുതാവുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ചാർജുകളെല്ലാം തന്നെ ബൌണ്ട് ചാർജുകൾ അഥവാ ബന്ധിത ചാർജുകൾ ആയിരിക്കും അതായത് ഇവയ്ക്കു സ്വതന്ത്രമായി ചലിക്കാൻ സാധിക്കില്ല മാത്രമല്ല നമുക്കിവിടെ ഏതെങ്കിലും ബിന്ദുവിലുള്ള ഇലക്ട്രിക്ക് പൊട്ടൻഷ്യൽ ഈ ചാർജുകൾ കാരണമുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് ഇവ കൂടി കണ്ടുപിടിക്കാൻ സാധിക്കും ഉദാഹരണമായി പൊട്ടൻഷ്യൽ ഇവിടെ rʹ എന്നതാണ് സ്രോതസ് ബിന്ദുവായി എടുത്തിരിക്കുന്നത് അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് നമ്മളിവിടെ പരാമർശിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ പോളറൈസേഷൻ അഥവാ ധ്രുവീകരണം സംഭവിക്കാവുന്നവയാണ് അതായത് നമ്മൾ ഇത്തരം വസ്തുക്കൾ ഒരു ബാഹ്യ ഇലക്ട്രിക്ക് ഫീൽഡിൽ വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവയിൽ ഒരു ഫീൽഡ് പ്രയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ചാർജുകളുടെ സാന്നിധ്യത്തിലോ ഇതിൽ ധ്രുവീകരണം ഉണ്ടാകുന്നു അതുകൊണ്ടു നമുക്ക് ഇലക്ട്രിക്ക് ഫീൽഡും പൊട്ടൻഷ്യലും കാണാനും അല്ലെങ്കിൽ ഇത്തരം ധ്രുവീകരണ സാധ്യതയുള്ള വസ്തുക്കളുടെ സ്വാധീനം അല്ലെങ്കിൽ ഇത്തരം വസ്തുക്കളുടെയും ബാഹ്യ ചാർജുകളുടെയും സ്വാധീനം കണ്ടുപിടിക്കാനും ഏതു തരം ഫീൽഡും പൊട്ടൻഷ്യലുമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാനുമുള്ള പൊതുവായ ഒരു രീതി കണ്ടുപിടിക്കേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തോടെ നമ്മൾ ഇലക്ട്രിക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന ഒരു ഘടകം ഇവിടെ എടുക്കുകയാണ് ഇതെന്താണെന്നു നോക്കാം ഒരു ഡൈഇലക്ട്രിക്ക് മീഡിയ ത്തിനുള്ളിൽ ഒരു സ്വതന്ത്ര അഥവാ ഫ്രീ ചാർജ് വിന്യാസം ρ ഉണ്ടെന്നിരിക്കട്ടെ ഇത് ബൌണ്ട് അഥവാ ബന്ധിത ചാർജിൽ നിന്നും വ്യത്യസ്തമാണ് ചിത്രത്തിൽ ഡൈഇലക്ട്രിക്ക് മീഡിയം ചുകപ്പ് കളറിലും ചാർജ് വിന്യാസം കറുപ്പ് കളറിലും കാണിച്ചിരിക്കുന്നു അപ്പോൾ ഇലക്ട്രിക്ക് ഫീൽഡിന്റെ ഡൈവേർജൻസ് എടുത്താൽ ഇതിൽ ഒന്നാമത്തെ പദം സ്വതന്ത്ര ചാർജ് വിന്യാസം ρ കാരണമുള്ളതും രണ്ടാമത്തെ പദം ബൌണ്ട് ചാർജ് കാരണമുള്ളതുമാണ് ഇക്വേഷനെ പുനക്രമീകരിച്ചാൽ ബ്രാക്കറ്റിനകത്തുള്ള പദങ്ങളെ ചേർത്ത് ഡിസ്പ്ലേസ്മെന്റ് D എന്ന് വിളിക്കാം അതായത് അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷനെ മാറ്റി എഴുതാവുന്നതാണ് അപ്പോൾ ഇതനുസരിച്ച് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡൈവേർജൻസ് എടുത്താൽ സ്വതന്ത്ര വോളിയം ചാർജ് ഡെൻസിറ്റി ലഭിക്കും ഇതിനെ വേണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഗോസ്സ് നിയമം Gauss's law എന്ന് പറയാം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന ആശയം കൊണ്ടുവന്നതിന്റെ നേട്ടം എന്താണ് ഇവിടെ ഫ്രീ ചാർജ് ഡെൻസിറ്റി എന്നത് നമ്മൾ കൊണ്ടുവന്ന ആശയമാണ് ഇവിടെ പ്രേരിത ചാർജ് അഥവാ ഇൻഡ്യൂസ്ഡ് ചാർജ് എന്നതിന് പകരം നമുക്ക് അറിയാവുന്ന ഫ്രീ ചാർജുമായി ബന്ധപ്പെട്ട ഡിസ്പ്ലേസ്മെന്റ് എന്ന ആശയത്തിലൂടെ വിശദീകരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ഞാനിവിടെ ഒരു ഡൈഇലക്ട്രിക് മാധ്യമം ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ മുന്നിലേക്കായി കൊണ്ടുവരുന്നു എന്നിരിക്കട്ടെ അപ്പോൾ ഇതിൽ ഈ ബാഹ്യ ഫീൽഡ് കാരണം ചാർജുകൾ പ്രേരിതമാക്കപ്പെടുന്നു അഥവാ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു ഈ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ചാർജ് എത്രയെന്ന് നമുക്കറിയില്ല അതുകൊണ്ടുതന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തിയറി നമുക്ക് പരിചിതമായ സ്വതന്ത്ര ചാർജ് ഡെൻസിറ്റി 𝜌 ഉപയോഗിച്ചാകുന്നതായിരിക്കും അഭികാമ്യം ഇപ്രകാരം സ്വതന്ത്ര ചാർജ് ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് D അപ്പോൾ എന്നാൽ ഇലക്ട്രിക്ക് ഫീൽഡ് ഉണ്ടാകുന്നത് ചാർജ് കാരണമാണല്ലോ ഈ ചാർജ് ബൌണ്ട് അഥവാ ബന്ധിത ചാർജോ ഫ്രീ അഥവാ സ്വതന്ത്ര ചാർജോ കാരണമാകാം അതുകൊണ്ടു തന്നെ നേരത്തെ കണ്ടതുപോലെ നമുക്ക് ഫീൽഡിനെ V എന്ന് എഴുതാം ഇതിനെ വീണ്ടും മാറ്റിയെഴുതാവുന്നതാണ് അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പദം ബന്ധിത അഥവാ ബൌണ്ട് വോളിയം ചാർജിനെയും മൂന്നാമത്തെ പദം ബന്ധിത സർഫേസ് ചാർജിനെയും പ്രതിനിധാനം ചെയ്യുന്നു അപ്പോൾ r ലുണ്ടാവുന്ന ഇലക്ട്രിക്ക് ഫീൽഡ് ഇത്തരം സ്റ്റാറ്റിക് ചാർജിൽ നിന്നാണ് അതുകൊണ്ടുതന്നെ മാത്രമല്ല നമുക്ക് പൊട്ടൻഷ്യൽ V ൽ നിന്നും E കണ്ടുപിടിക്കാനും സാധിക്കും അപ്പോൾ ഒരു ധ്രുവീകരണ സാധ്യതയുള്ള മീഡിയം എടുത്താൽ അവിടെ രണ്ടു ക്വാണ്ടിറ്റികൾ D യും E യും പ്രധാനമായുണ്ട് ചിത്രത്തിൽ കാണിച്ചതുപോലെ ഒരു ധ്രുവീകരണ സാധ്യതയുള്ള മീഡിയവും സ്വതന്ത്ര ചാർജ് ഡെൻസിറ്റി ρ ഉം എടുത്താൽ നമുക്ക് രണ്ട് ഇക്വേഷൻ ലഭിക്കും ഒന്ന് ഡിസ്പ്ലേസ്മെന്റിനുള്ളതും മറ്റൊന്ന് ഇലക്ട്രിക്ക് ഫീൽഡുമായി ബന്ധപ്പെട്ടതും അതായത് ഏതെങ്കിലും ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നതിനായി ഹെൽമ്ഹോറ്റ്സ് തിയറം അനുസരിച്ച് അതിന്റെ കേൾ ഡൈവേർജൻസ് ഇവ അറിഞ്ഞിരിക്കണം ഇവിടെ നമുക്ക് D E എന്നിങ്ങനെ രണ്ടു ക്വാണ്ടിറ്റികൾ ഉണ്ട് D യും E യും നമുക്കറിയാം അടുത്ത ചോദ്യം D സീറോ ആണോയെന്നാണ് D സീറോ ആയിരുന്നെങ്കിൽ ഇത് ഇലക്ട്രിക്ക് ഫീൽഡ് മാത്രം കാണാനുള്ള ഒരു പ്രശ്നമായി മാറുമായിരുന്നു അപ്പോൾ എനിക്ക് D യും D യും അറിയാം പിന്നെ D എന്നത് ഒരു പൊട്ടൻഷ്യലിന്റെ ഡൈവേർജൻസ് ആയി എഴുതാവുന്നതാണ് എന്നിട്ട് നേരത്തെ ചെയ്ത രീതിയിൽ ക്യാൽകുലേഷൻ ചെയ്യാവുന്നതാണ് എന്നാൽ ഇത് ശരിയാവണമെന്നില്ല കാരണം ഇതിൽ E 0 ആണല്ലോ അപ്പോൾ എന്നാണ് നമുക്ക് കിട്ടുന്നത് അടുത്തതായി ഈ ചിത്രം നോക്കൂ ഇവിടെ ഒരു ഡൈഇലക്ട്രിക്ക് മാധ്യമം എടുത്തിട്ടുണ്ട് X Y ആക്സിസ്സുകൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഈ വസ്തുവിൽ Y ദിശയിൽ പോളറൈസേഷൻ നടന്നതായി സങ്കൽപ്പിക്കുക ഈ പോളറൈസേഷൻ X ദിശയിൽ വ്യത്യാസപ്പെടുന്നുണ്ടെന്ന് കരുതുക അതായത് X ദിശയിൽ ഇത് കോൺസ്റ്റന്റ് അല്ല ഇവിടെ എന്നിരിക്കട്ടെ അപ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ് എന്ന കാര്യം അതിനർത്ഥം P സീറോ ആവണമെന്നില്ല എന്നാണ് അപ്പോൾ സാമാന്യ രൂപത്തിൽ നമുക്ക് എന്നെഴുതാം എന്നാൽ മാധ്യമത്തിന്റെ പോളറൈസേഷൻ P ഇലക്ട്രിക്ക് ഫീൽഡ് E യെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ പോളറൈസേഷൻ P വരുന്ന പദം നമുക്കറിയില്ല ഇത് നമുക്ക് നേരത്തെ അറിയാത്തതുകൊണ്ട് തന്നെ ഡൈഇലക്ട്രിക്ക് മീഡിയത്തിന്റെ സാന്നിധ്യത്തിൽ വരുന്ന ഫീൽഡ് കാണാനായി പുതിയ രീതി കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിനു മുൻപേ ഇതിനെക്കുറിച്ചു നമുക്ക് അറിയാനായി ആദ്യം ഇലക്ട്രിക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണുന്നതിനുള്ള ചില ക്യാൽക്കുലേഷൻ ചെയ്യാം നമ്മൾ നേരത്തെ h ഉയരവും R റേഡിയസുമായുള്ള ഒരു സിലിണ്ടറിന്റെ പോളറൈസേഷൻ വിശദമായി ചർച്ച ചെയ്തത് ഓർക്കുന്നുണ്ടല്ലോ അവിടെ R h എന്നും പോളറൈസേഷൻ P താഴെനിന്നും മുകൾ ദിശയിലേക്കാണെന്നുമാണ് എടുത്തിരുന്നത് ഇത് മുകൾ വശത്ത് P 0 സർഫേസ് ചാർജ് ഡെൻസിറ്റിയോടെ പോസിറ്റീവ് ചാർജും താഴെ വശത്ത് P 0 സർഫേസ് ചാർജ് ഡെൻസിറ്റിയോടെ നെഗറ്റീവ് ചാർജും ഉള്ള ഒരു സിലിണ്ടറിന് സമാനമാണെന്ന് നമ്മൾ കണ്ടു അതുകൊണ്ടുതന്നെ ഇലക്ട്രിക്ക് ഫീൽഡ് മുകളിൽ നിന്നും താഴേക്കുള്ള ദിശയിലായിരിക്കും വശങ്ങളിലുള്ള ഫ്രിൻജ് ഇഫെക്ട് പരിഗണിക്കാതിരുന്നാൽ പുറത്തുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് E 0 അതുപോലെ പോളറൈസേഷൻ P 0 അതിനാൽ ഇലക്ട്രിക്ക് ഡിസ്പ്ലേസ്മെന്റ് D 0 E P 0 ആയിരിക്കും ഇലക്ട്രിക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള രണ്ടാമത്തെ ഉദാഹരണമായി നമുക്ക് സമമായി അഥവാ യൂണിഫോം ആയി പോളറൈസ് ചെയ്യപ്പെട്ട ഒരു ഗോളം എടുക്കാം ഇതിന്റെ പോളറൈസേഷൻ Z ദിശയിലാണെന്നിരിക്കട്ടെ ഇത് മുകൾ വശം പോസിറ്റീവ് ചാർജും താഴെവശം നെഗറ്റീവ് ചാർജുമുള്ള ഒരു ഗോളത്തിനു സമമാണെന്നു നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇതിന്റെ സർഫേസ് ചാർജ് ഡെൻസിറ്റി P എന്നും നമുക്കറിയാം ഈ സർഫേസ് ചാർജ് ഗോളത്തിനുള്ളിൽ മുകളിൽ നിന്നും താഴേക്കുള്ള ദിശയിൽ ഒരു ഇലക്ട്രിക്ക് ഫീൽഡ് ഉണ്ടാക്കുന്നു P P 0 z ആണെങ്കിൽ അതിനർത്ഥം ഗോളത്തിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക്ക് ഡിസ്പ്ലേസ്മെന്റ് അതായത് ഗോളത്തിന്റെ പുറത്ത് ഇലക്ട്രിക്ക് ഫീൽഡ് ഇവിടെ ഇലക്ട്രിക്ക് ഡൈപോൾ മോമെന്റ്റ് ഗോളത്തിന്റെ ബാഹ്യഭാഗത്ത് പോളറൈസേഷൻ P 0 ആണ് അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഇലക്ട്രിക്ക് ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കയാണ് ഇതിന്റെ ഡൈവേർജൻസ് എടുത്താൽ സിസ്റ്റ ത്തിലെ ഫ്രീ ചാർജ് ഡെൻസിറ്റി അഥവാ സ്വതന്ത്ര ചാർജ് ഡെൻസിറ്റി ലഭിക്കുന്നതാണ് അതായത് മാത്രമല്ല എന്നും കിട്ടിയിരിക്കുന്നു ഇവിടെ നമ്മൾ ചില ഉദാഹരങ്ങൾ എടുത്ത് ഇലക്ട്രിക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണുക കൂടി ചെയ്തിട്ടുണ്ട്